നമ്മൾ ഇപ്പോൾ ഇൻഡക്റ്റീവ് ഡെഫിനിഷ്യൻസ് റിക്കേഴ്സീവ് ഫങ്ഷൻസ് എന്നിവയുടെ കാര്യക്ഷമമായ ഇവാലുവേഷൻ മെമ്മോഐസേഷൻ ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്നിവ ഉപയോഗിച്ച് എങ്ങിനെ ചെയ്യാം എന്നതിൽ എത്തി നിൽക്കുന്നു ഇൻഡക്റ്റീവ് സ്ട്രക്ച്ചർ തിരിച്ചറിയുക എന്ന പ്രധാന ടാർഗെറ്റിനായുള്ള ഉദാഹരണങ്ങൾ നമ്മൾ നോക്കുന്നു കൂടാതെ നിങ്ങൾ ഇൻഡക്റ്റീവ് സ്ട്രക്ച്ചർ തിരിച്ചറിഞ്ഞാൽ പ്രോഗ്രാമിന്റെ റിക്കേഴ്സീവ് സ്ട്രക്ച്ചർ വ്യക്തമാകും അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിപൻഡൻസികൾ എക്സ്ട്രാക്റ്റുചെയ്യാനാകും നിങ്ങൾക്ക് ഏതുതരം മെമ്മോ ടേബിൾ ഉണ്ടെന്നും എങ്ങനെ ഐട്രേറ്റിവ് ആയി ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കാമെന്നും കണ്ടെത്തുക ഇത് പ്രാക്ടീസിൽ വരുന്ന ഒന്നാണ് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കിയാൽ നടപടിക്രമം കൂടുതൽ വ്യക്തമാകും പക്ഷേ ഡൈനാമിക് പ്രോഗ്രാമിംഗിന്റെ പ്രധാന കാര്യം ഇൻഡക്റ്റീവ് സ്ട്രക്ച്ചർ മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ് നിങ്ങൾ ഒരു പ്രശ്നം എടുക്കേണ്ടതുണ്ട് പ്രധാന പ്രശ്നം അതിന്റെ ഉപഭാഗങ്ങളെ എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് തിരിച്ചറിയുക ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഒരു റിക്കേഴ്സീവ് പ്രോഗ്രാമിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിയുന്ന നല്ല ഇൻഡക്റ്റീവ് ഡെഫിനിഷ്യൻസ് നൽകുന്നു നിങ്ങൾക്ക് റിക്കേഴ്സീവ് പ്രോഗ്രാം ലഭിച്ചുകഴിഞ്ഞാൽ മെമ്മോ ടേബിളും ഡൈനാമിക് പ്രോഗ്രാമിംഗും അതിൽ നിന്ന് സ്വാഭാവികമായി പുറത്തുവരും വാക്കുകൾ ഉൾപ്പെടുന്ന പ്രശ്നമാണിത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ജോഡി വാക്കുകൾ എടുത്ത് ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡ് കണ്ടെത്തുക എന്നതാണ് ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് secretsecretary എന്നിവ ഉണ്ട് കൂടാതെ secret ഇതിനകം secretary ടെ ഉള്ളിലുണ്ട് secret ൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ വാക്കാണ് secret പൊതുവായുള്ള ഏറ്റവും ദൈർഘ്യമേറിയ സബ്വേഡ് secret എന്ന പദമാണ് അതിന് നീളം 6 ഉണ്ട് അടുത്ത ചിന്തയിലേക്ക് തിരിയാം ബൈ സെക്ട് ട്രൈ സെക്ട് എന്നിട്ട് യഥാർത്ഥത്തിൽ ഇത് isect ആണ് 5 നീളമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബൈ സെക്ട് ട്രൈ സെക്ട് ഉണ്ടെങ്കിൽ sec നമ്മൾ സബ്വേഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ ഒരു പദത്തെ അർത്ഥമാക്കുന്നില്ല നമ്മൾ അക്ഷരങ്ങളുടെ ഒരു ശ്രേണി മാത്രമാണ് അർത്ഥമാക്കുന്നത് 3 ദൈർഘ്യമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ സബ്വേഡാണ് sec നിങ്ങൾക്ക് director secretary എന്നിങ്ങനെ വളരെ വ്യത്യസ്തമായ രണ്ട് വാക്കുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകൂ ഉദാഹരണത്തിന് ഇവിടെ r e e c എന്നിവ സബ്വേഡിന്റെ ഉദാഹരണങ്ങൾ ആണ് പക്ഷേ ശരിക്കും വളരെ ദൈർഘ്യമേറിയ പദങ്ങൾ ഉണ്ട് സബ്വേഡിന് പൊതുവായുള്ള ദൈർഘ്യം 2 മാത്രമാണ് കൂടുതൽ വിവരണം ഇവിടെയുണ്ട് എനിക്ക് യു വി എന്നീ രണ്ട് പദങ്ങളുണ്ടെന്ന് കരുതുക യു ന്റെ നീളം m ഉം v യുടെ നീളം n ഉം പൈത്തൺ നൊട്ടേഷൻ നമ്പർ 0 മുതൽ m മൈനസ് 1 0 മുതൽ n മൈനസ് 1 ഉം ആണ് പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് a i ൽ ആരംഭിച്ച് k വരെ പോകാൻ കഴിയും a i ടു i പ്ലസ് k മൈനസ് 1 വരെയും b j ടു j പ്ലസ് കെ മൈനസ് 1 വരെയുമാണ് ഈ രണ്ട് സെഗ്മെന്റുകളും സമാനമാണ് ഇതൊരു പൊതുവായ സബ്വേഡാണ് മാത്രമല്ല ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡ് കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്താണ് കെ സബ്വേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സബ്വേഡ് ഒരു ഉപോൽപ്പന്നമാണെന്ന് കണ്ടെത്തും നിങ്ങൾ ആദ്യം k കണ്ടെത്തേണ്ടതുണ്ട് uv യുടെ ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡിന്റെ ദൈർഘ്യം എന്താണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബ്രൂട്ട് ഫോഴ്സ് അൽഗോരിതം ഉണ്ട് അത് നിങ്ങൾ i j എന്നിവയിൽ രണ്ട് വാക്കുകളിൽ ആരംഭിക്കുക ഓരോ വാക്കിലും നിങ്ങൾക്ക് i ഇൻ u j ഇൻ v എന്നിങ്ങനെ ഒരു സ്ഥാനം ആരംഭിക്കാനും കണ്ടെത്തുന്നതിനുമുമ്പ് നിങ്ങൾക്ക് എത്ര ദൂരം പോകാമെന്ന് കാണാനും കഴിയും അവ ഇല്ലെന്ന് കണ്ടെത്തുന്നത് വരെ നിങ്ങൾ ai bj എന്നിവ ഒത്തു നോക്കുന്നു ai bj എന്നിവ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിന്റെ പിഴ അത് bj ആയിരിക്കണം ai bj എന്നിവ ഒന്നാണെങ്കിൽ നല്ലത് ഇത് bj ആണ് രണ്ടും ഒന്നാണ് എങ്കിൽ നിങ്ങൾ ai പ്ലസ് 1 bj പ്ലസ് 1 ലേക്ക് പോകുക അത് തുടരുക എന്നിട്ട് വ്യത്യസ്തമായ രണ്ട് അക്ഷരങ്ങൾ കണ്ടെത്തുമ്പോഴെല്ലാം aj ൽ ആരംഭിക്കുന്ന കോമൺ അഡ്വേഴ്സ് അവസാനിച്ചു നിങ്ങൾക്ക് കാണാം ij ൽ എന്തിന്റെയെങ്കിലും പൊതുവായ ഒരു സബ്വേഡ് ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാ ij കളിലും നിങ്ങൾ ഏറ്റവും ദൈർഘ്യമേറിയത് തിരയുന്നു അത് നിങ്ങളുടെ ഉത്തരമായി മാറുന്നു ഇപ്പോൾ ഇത് നിർഭാഗ്യവശാൽ ഇപ്പോൾ ഒരു n ക്യൂബ് അൽഗോരിതം ആണ് m n എന്നിവ സാങ്കേതികമായി തുല്യമാണെന്ന് നമ്മൾ കരുതുന്നു m ടൈംസ് n ചോയ്സ് ഓഫ് ij ഉള്ളതിനാൽ ഓർഡർ mn സ്ക്വയർഡ് ആണ് പൊതുവേ ഞാൻ ij യിൽ ആരംഭിച്ചു തുടർന്ന് i മുതൽ അവസാനം വരെയും j മുതൽ അവസാനം വരെയും പോകണം ഈ ഓരോ ij യ്ക്കും നമ്മൾ ഒരു സ്കാൻ ചെയ്യേണ്ടതുണ്ട് സാധാരണയായി ഈ സ്കാൻഓർഡർ n ഫാക്ടർ വരെ ചേർക്കുന്നു അതിനാൽ നമുക്ക് ഓർഡർ mnസ്ക്വയർഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഓർഡർ n ക്യൂബ് ചെയ്യുക നമ്മുടെ ലക്ഷ്യം കമ്പ്യൂട്ടേഷൻ കൂടുതൽ കാര്യക്ഷമമാക്കുന്ന ചില ഇൻഡക്റ്റീവ് സ്ട്രക്ച്ചർ കണ്ടെത്തുക എന്നതാണ് അപ്പോൾ ഇൻഡക്റ്റീവ് സ്ട്രക്ച്ചർ എന്താണ് നമ്മൾ ഇതിനകം തന്നെ കണ്ടിട്ടുണ്ട് ദൈർഘ്യം k ഉള്ള i j യിൽ ആരംഭിക്കുന്ന ഒരു കോമൺസ് സബ്വേഡ് ഉണ്ടെന്ന് എപ്പോഴാണ് പറയാൻ കഴിയുക ആദ്യത്തേത്ai b j യ്ക്ക് തുല്യമായിരിക്കുക എന്നതാണ് എനിക്ക് ഈ കണ്ടീഷൻ ആവശ്യമാണ് ഇപ്പോൾ ഇത് ij ലെ k ദൈർഘ്യമുള്ള ഒരു കോമൺ സബ്വേഡാണെങ്കിൽ ഈ സെഗ്മെന്റ് i പ്ലസ് 1 മുതൽ ഇവിടെ വരെ j പ്ലസ് 1 മുതൽ ഇവിടെ വരെ ഇത് രണ്ടും പൊരുത്തപ്പെടണം മാത്രമല്ല ai bj ന് തുല്യമാണെങ്കിൽ അതുപോലെ i പ്ലസ് 1 j പ്ലസ് 1 എന്നിവ മുതൽ k മൈനസ് 1 നീളമുള്ള സബ്വേഡ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ij ൽ ആരംഭിക്കുന്ന k ദൈർഘ്യമുള്ള ഒരു കോമൺ സബ്വേഡ് ഉണ്ടെന്ന് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എനിക്ക് ഇനിപ്പറയുന്ന നിർവ്വചനം എഴുതാൻ കഴിയും i j മുതൽ ആരംഭിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡ് lcw ന്റെ ദൈർഘ്യം ശരി അവ രണ്ടും ഒരേപോലെയല്ലെങ്കിൽ ai ഒരേപോലെ അല്ലെങ്കിൽ പൊതുവായ ഒരു സബ്വേഡും ഇല്ല കാരണം ഞാൻ i ൽ ആരംഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ രണ്ട് വ്യത്യസ്ത അക്ഷരങ്ങളുണ്ട് LCW ഓഫ് ij ഈക്വൽ റ്റു 0 ആണ് അല്ലെങ്കിൽ എനിക്ക് 1 പ്ലസ് LCW ഓഫ് i പ്ലസ് 1 j പ്ലസ് 1 ചെയ്യുക ഇങ്ങനെ ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡ് ഏതെന്ന് എനിക്ക് ഇൻഡക്റ്റീവ് ആയി കണ്ടെത്താൻ കഴിയും അവിടെ നിന്ന് എന്തുചെയ്യാനാകുമെന്ന് കണ്ടെത്തുക നിലവിലെ അക്ഷരം ai ഈക്വൽ റ്റു b j ആണ് എനിക്ക് ഒരു അക്ഷരം ചേർക്കാം എനിക്ക് വൺ പ്ലസ് ഇത് ലഭിക്കുന്നു കാരണം രണ്ട് പദങ്ങളിൽ ഒന്ന് ശൂന്യമായിരിക്കുമ്പോൾ ആണ് ബൌണ്ടറി കണ്ടീഷന്റെ അടിസ്ഥാന കേസ് എനിക്ക് അക്ഷരങ്ങളൊന്നും ശേഷിക്കുന്നില്ലെങ്കിൽ ഞാൻ i j വരെ പോയിട്ടുണ്ടെങ്കിൽ ij യുടെ വ്യത്യസ്ത കോമ്പിനേഷനുകൾ ഞാൻ നോക്കുന്നു ഒന്നുകിൽ i അല്ലെങ്കിൽ j വാക്കിന്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു പൊതു സബ്വേഡിന് സാധ്യതയില്ല ഒരു വാക്കിന്റെ അവസാനത്തിൽ എത്തുമ്പോൾ ഉത്തരം 0ആയിരിക്കണം ഇത് നമുക്ക് ഇനിപ്പറയുന്ന ഡെഫിനിഷ്യൻസ് നൽകുന്നു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ u ന്റെ നീളം m ഉണ്ടെന്ന് ഓർമ്മിക്കുക ഇതിന് 0 മുതൽ m മൈനസ് 1 വരെ ഉണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അവസാന അക്ഷരം മറികടന്നുവെന്ന് സൂചിപ്പിക്കുന്നതിന് m ന്റെ ഒരു സ്ഥാനം കൂട്ടും അതുപോലെ വി 0 മുതൽ N മൈനസ് 1 വരെ സാധുവായ സ്ഥാനങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഈ 0 മുതൽ n വരെ നമ്മൾ ഉപയോഗിക്കും ഞാൻ i ഈക്വൽ റ്റു m j ഈക്വൽ റ്റു n ആകുകയാണെങ്കിൽ അതിന്റെ ഇൻഡക്സ് ആ വാക്കിന്റെ അവസാനം കടന്നു പോയി എന്നാണ് അർത്ഥം ഇത് m ആയിരിക്കണം ഇത് n ആയിരിക്കണം നിങ്ങൾ m ൽ എത്തിയാൽ lcw ഓഫ് n കോമ j 0 ആണ് കാരണം നമ്മൾ ദൈർഘ്യം u മറികടന്നു അതുപോലെ നിങ്ങൾ n ൽ എത്തിയാൽ എന്നാൽ lcw ഓഫ് i കോമ n 0 ആണ് കാരണം നിങ്ങൾ v മറികടന്നു നിങ്ങൾ ദൈർഘ്യം മറികടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വാക്കിനുള്ളിൽ എവിടെയെങ്കിലും സാധുവായ സ്ഥാനത്താണെങ്കിൽ രണ്ട് സ്ഥാനങ്ങളും തുല്യമല്ലെങ്കിൽ നീളം 0 ആയിരിക്കും അല്ലാത്തപക്ഷം a i bj ക്ക് തുല്യമല്ലെങ്കിൽ ഞാൻ i പ്ലസ് 1 j പ്ലസ് 1 എന്നിവയിൽ നിന്നും ദൈർഘ്യം കണക്കാക്കുകയും അതിൽ 1 ചേർക്കുകയും ചെയ്യുന്നു ai bj ക്ക് തുല്യമാകുമ്പോൾ ഇത് സംഭവിക്കുന്നു കാരണം ആ സെഗ്മെന്റ് എനിക്ക് വിപുലീകരിക്കാൻ കഴിയും നമ്മൾ നേരത്തെ നൽകിയ ഇൻഡക്റ്റീവ് ഡെഫിനിഷ്യൻസ് ഉപയോഗിച്ച് ഇത് ഒരു സമവാക്യത്തിൽ പ്രസ്താവിക്കാം അതുകൊണ്ട് ഇവിടെ നമ്മൾ ഉദാഹരണമായി bisect secret എന്നിവ കണ്ടു നമുക്ക് 0 മുതൽ 5 വരെ സ്ഥാനമുണ്ട് തുടർന്ന് വാക്കിന്റെ അവസാനത്തെ സൂചിപ്പിക്കുന്ന 6 എന്ന സ്ഥാനമുണ്ട് ഇപ്പോൾ നമ്മുടെ ഇൻഡക്റ്റീവ് ഡെഫിനിഷ്യൻസ് എഴുതിയ രീതി ഓർക്കുക i j എന്നത് i പ്ലസ് 1 ജെ പ്ലസ് 1 എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ വഴികളിലെ ഡിപെൻഡൻസി ഈ അമ്പടയാളങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നു ഇത് പരിഹരിക്കുന്നതിന് ഞാൻ ആദ്യം ഇത് പരിഹരിക്കേണ്ടതുണ്ട് 2 കോമ 3 ലെ മൂല്യം 3 കോമ 4 ലെ മൂല്യത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇത് പരിഹരിക്കുന്നതിന് എനിക്ക് വേറെ ഒന്നും പരിഹരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ i ചെയ്യണം കാരണം ഈ i പരിഹരിക്കുന്നതിന് എനിക്ക് എന്തായാലും അങ്ങനെ ചെയ്യേണ്ടതുണ്ട് അടിസ്ഥാനപരമായി നമുക്ക് ഈ ലളിതമായ കാര്യം ഉണ്ട് അത് ഈ മൂലയും യഥാർത്ഥത്തിൽ വലത് നിരയും ചുവടെയുള്ള ഇതും ചെയ്യാൻ ഒന്നും ആവശ്യമില്ല കാരണം അത് 0 ആണ് നമുക്ക് യഥാർത്ഥത്തിൽ ആ മൂല്യങ്ങൾ 0 ആയി പൂരിപ്പിക്കാൻ കഴിയും കാരണം ഡെഫിനിഷ്യൻസ് അനുസരിച്ച് നമുക്ക് അത് നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആരംഭിക്കാ ഉദാഹരണത്തിന് ഈ മൂല്യം അറിയാം അതിനാൽ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു ഈ ടി ഇതുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും രണ്ടും ഒന്നാണ് നമ്മൾ 1 പ്ലസ് താഴെയുള്ള വാല്യൂ എടുക്കുന്നു അത് രണ്ട് താഴെയാണ് നമുക്ക് 1 ലഭിക്കുന്നു തുടർന്ന് നമുക്ക് മുകളിലേക്ക് പോയി ഓരോ ഘട്ടത്തിലും ഇതേ കാര്യം ചെയ്യാനും കഴിയും ഉദാഹരണത്തിന് c എന്നത് t ക്കു തുല്യമല്ല ഈ അക്ഷരങ്ങളൊന്നും നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഈ അക്ഷരങ്ങളൊന്നും ടി അല്ല ഈ അക്ഷരങ്ങൾക്കെല്ലാം എനിക്ക് 0 നേരിട്ട് ലഭിക്കും കാരണം ഇവിടെയെല്ലാം ai b j യ്ക്ക് തുല്യമല്ലെന്ന് കാണാം എനിക്ക് ഐ പ്ലസ് 1 ജെ പ്ലസ് 1 എന്നിവ നോക്കേണ്ടതില്ല 0 എന്ന് ഞാൻ നേരിട്ട് പറയുന്നു കാരണം അവിടെ ഇല്ല ഈ രീതിയിൽ എനിക്ക് ഈ നിര പൂരിപ്പിക്കാൻ കഴിയും ഇത് നമ്മുടെ ഗ്രിഡ് പാത്ത് പോലെയാണ് ഡിപെൻഡൻസി ഇടത്തോട്ടും താഴെയുമായിരുന്നിട്ടും നിരയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ഈ നിരയെ പൂരിപ്പിക്കാൻ കഴിയും ഇവിടെ ഡിപെൻഡൻസി ഡയഗണലായി ചുവടെ വലതുവശത്താണ് എനിക്ക് നിരനിരയായി പൂരിപ്പിക്കാൻ കഴിയും എനിക്ക് മുന്നോട്ട് പോകാം ഞാൻ തുടരുകയാണെങ്കിൽ ഞാൻ ഒരു എൻട്രി 3 കണ്ടെത്തും എൻട്രി 3 ഞാൻ കാണുന്ന ഏറ്റവും വലിയ എൻട്രിയാണ് അതാണ് യഥാർത്ഥ ഉത്തരം ഈ എൻട്രി 3 ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഏറ്റവും ദൈർഘ്യമേറിയ പൊതുവായ സബ്വേഡിന്റെ ദൈർഘ്യത്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ആണ് ആ വാക്കിനെ അല്ല നമുക്ക് ഇതാവശ്യമാണ് നമുക്ക് അത് ചെയ്യാൻ കഴിയും കാരണം നമുക്ക് ദൈർഘ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഉത്തരം യഥാർത്ഥത്തിൽ വായിക്കാൻ കഴിയും അതിനാൽ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ 3 നേടിയതെന്ന് ഇവിടെ1 പ്ലസ് 2 വന്നതിനാൽ 3 ആയി ലഭിച്ചു നമുക്ക് 1 പ്ലസ് 2 ആയി വന്നതിനാൽ ഈ രണ്ട് അക്ഷരങ്ങളും തുല്യമാണെന്ന് അർത്ഥമാക്കണം നമുക്ക് ഇവിടെ 2 ലഭിച്ചു കാരണം ഇത് 1 പ്ലസ് 1 ആണ് അപ്പോൾ ഈ രണ്ട് അക്ഷരങ്ങളും ഒന്നായിരിക്കണം അവസാനമായി നമുക്ക് ഇവിടെ ഒന്ന് ലഭിച്ചു കാരണം ഇത് 1 പ്ലസ് 0 ആണ് ഈ രണ്ട് അക്ഷരങ്ങളും തുല്യമാണ് അതുകൊണ്ട് ഈ മൂന്ന് അക്ഷരങ്ങളും ഒന്നായിരിക്കണം നിങ്ങൾ ആ മാജിക്കൽ മൂല്യത്തിൽ നിന്ന് താഴേക്ക് വന്നാൽ ഏറ്റവും വലിയ മൂല്യം നമ്മൾ സീക്വൻസ് പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ഇത് വായിക്കാനും അനുബന്ധ വരിയോ നിരയോ കണ്ടെത്താം കാരണം ഇത് ഒന്ന് തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ സബ്വേഡ് തന്നെയാണ് ഇവ രണ്ടിനുമുള്ള പൊതുവായ ഏറ്റവും ദൈർഘ്യമേറിയ സബ്വേഡ് പൈത്തണിലെ വളരെ ലളിതമായ ഇമ്പ്ലിമെന്റേഷൻ ഇതാണ് യു വി എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് നിങ്ങൾ ആരംഭിക്കുന്നത് നിങ്ങൾ lcw n ത് റോ n ത് കോളം ബൌണ്ടറിയിൽ ഇനിഷ്യലൈസ് ചെയ്യുന്നു തുടർന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പരമാവധി മൂല്യം ഓർമ്മയുണ്ട് പരമാവധി മൂല്യം 0 ആക്കി നിങ്ങൾ ഇത് സൂക്ഷിക്കുന്നു തുടർന്ന് ഈ പ്രത്യേക കേസിൽ കോളം ഓർഡറിൽ പൂരിപ്പിക്കുക ഓരോ നിരയ്ക്കും ഓരോ വരിക്കും നിങ്ങൾ ഈ സമവാക്യം ഉപയോഗിച്ച് പൂരിപ്പിക്കുന്നു അത് ഈക്വൽ റ്റു i ആണെങ്കിൽ 1 അല്ലെങ്കിൽ 0 കൂടാതെ ഒരു പുതിയ മൂല്യം കിട്ടിയാൽ ഇത് ഞാൻ ഇവിടെ അപ്ഡേറ്റുചെയ്യുന്നു പുതിയ എൻട്രി നിലവിൽ ഉള്ള എൻട്രിയേക്കാൾ വലുതാണ് എങ്കിൽ ഞാൻ മാക്സിമം അപ്ഡേറ്റു ചെയ്യുന്നു മൊത്തത്തിലുള്ള പരമാവധി ദൈർഘ്യം എന്താണെന്ന് വേഗത്തിൽ കണ്ടെത്താൻ ഇത് എന്നെ അനുവദിക്കുന്നു ഒടുവിൽ ഈ രൂപത്തിലൂടെ പോകുമ്പോൾ ഞാൻ മുഴുവൻ ടേബിളും പൂരിപ്പിക്കും ഒപ്പം ഞാൻ കണ്ട പരമാവധി മൂല്യം തിരികെ നൽകും നമ്മൾ അത് ബ്രൂട്ട് ഫോഴ്സ് വച്ച് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഓർഡർ mn സ്ക്വയർ അൽഗോരിതം ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഓർഡർ m ബൈ n വലിപ്പം ഉള്ള ഒരു ടേബിൾ പൂരിപ്പിക്കുന്നു ഓരോ എൻട്രിയും വാക്കിലെ iത് സ്ഥാനം jത് സ്ഥാനം എന്നിവ പരിശോധിക്കാൻ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ അത് അനുസരിച്ച് ആവശ്യമെങ്കിൽ എൻട്രി i പ്ലസ് 1 j പ്ലസ് 1 എന്നിവ നോക്കും ഇത് ഒരു സ്ഥിരമായ ടൈം അപ്ഡേറ്റാണ് ഓർഡർ m ബൈ n വലിപ്പം ഉള്ള ഒരു ടേബിൾ നമ്മൾ പൂരിപ്പിക്കേണ്ടതുണ്ട് ഓരോ അപ്ഡേറ്റിനും കോൺസ്റ്റന്റ് സമയമെടുക്കും ഈ അൽഗോരിതം ബ്രൂട്ട് ഫോഴ്സ് കേസിലെ mn സ്ക്വയർഡ് നിന്ന് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് mn ലേക്ക് കൊണ്ടുവരുന്നു ദൈർഘ്യമേറിയ കോമൺ സബ് വേർഡിനേക്കാൾ വളരെ കൂടുതൽ ഉപയോഗപ്രദമായ പ്രശ്നം ലോങ്ങ്സ്റ്റ് കോമൺ സബ് സീക്വൻസ് ആണ് എന്താണ് ഒരു സബ്വേഡും സബ് സീക്വൻസും തമ്മിലുള്ള വ്യത്യാസം അതിനിടയിൽ ചില അക്ഷരങ്ങൾ ഇടാൻ നമ്മളെ സബ് സീക്വൻസ് അനുവദിച്ചിരിക്കുന്നു എന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾ മുമ്പത്തെ ഉദാഹരണങ്ങളിലേക്ക് മടങ്ങുകയാണെങ്കിൽ secret secretary എന്നിവ ഇവിടെ ഒരു പ്രശ്നവുമില്ല ബൈസെക്റ്trisect ആണെങ്കിലും അതെ പോലെയാണ് പക്ഷേ നമുക്ക് bisect secret നോക്കിയാൽ സ്കിപ് ചെയ്യാൻ നമ്മളെ അനുവദിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപോലെയുള്ള sec മാത്രമേ കിട്ടു എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ അധിക ടി എടുക്കാം കൂടാതെ നമുക്ക് അവിടെ ഈ രണ്ടും ഒഴിവാക്കി ഈ ടി യുമായി ഒത്തു നോക്കാം ഇപ്പോൾ sect എന്നത് വലത് വാക്കിലെ സബ് സീക്വൻസ് ആണ് ഇത് ഇടത് പദത്തിലെ ഒരു സബ്വേഡ് കൂടിയായ സബ് സീക്വൻസുമായി പൊരുത്തപ്പെടുന്നു വലതു വശത്തു അത് ഒരു സബ്വേഡ് അല്ല ഞാൻ സബ് സീക്വൻസ് sect ലഭിക്കാൻ എനിക്ക് ചില അക്ഷരങ്ങൾ കളയേണ്ടതായി വന്നു അതുപോലെ എനിക്ക് secretary director എന്നിവ ഉണ്ടെങ്കിൽ എനിക്ക് രണ്ടിടത്തും വിവേകപൂർവ്വം ചിലത് ഒഴിവാക്കി ectrectr പോലുള്ള ഒന്ന് കണ്ടെത്താനാകും എന്തുകൊണ്ടാണ് ഇത് മികച്ച പ്രശ്നം ആകുന്നത് ശരി നമ്മൾ അത് കാണും പക്ഷേ ഫലപ്രദമായി എന്താണ് ഒഴിവാക്കുക എന്നത് അർത്ഥമാക്കുന്നത് സ്കിപ്പിംഗ് എന്നാൽ വിടവുകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്ന സെഗ്മെന്റുകൾ എനിക്ക് ലഭിക്കുന്നു എന്നാണ് എനിക്ക് ഈ സെഗ്മെന്റ് ലഭിക്കുന്നു തുടർന്ന് ഈ സെഗ്മെന്റുകൾ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അടുത്ത പൊരുത്തം നോക്കുന്നു ഞാൻ ഒഴിവാക്കുന്നു പക്ഷേ അടുത്ത പൊരുത്തം എന്റെ വലതുവശത്തു വരണം നിലവിലെ പൊരുത്തത്തിന്റെ വലതുവശത്തും താഴെയുമായിരിക്കണം വരേണ്ടത് കാരണം എനിക്ക് ഈ വാക്കിൽ പിന്നിലേക്ക് പോയി പൊരുത്തം വീണ്ടും നോക്കാൻ കഴിയില്ല ഉദാഹരണത്തിന് എനിക്ക് ഇവിടെ പോയി ഇത് ഒരു വിപുലീകരണമാണെന്ന് പറയാൻ കഴിയില്ല കാരണം പൊരുത്തമുണ്ടോ എന്ന് നോക്കാൻ എനിക്ക് ഇവിടെ തിരികെ പോയി sec ൽ ഞാൻ കണ്ട e വീണ്ടും ഉപയോഗിക്കേണ്ടതായി വരും രണ്ടാമത്തെ ഇ secretൽ അനുവദനീയമല്ല എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും അത് ടേബിളിൽ വലത്തോട്ടു പോയി തിരിച്ചു വലത്തോട്ട് താഴേക്ക് പോകുന്നു ഞാൻ രണ്ട് വാക്കുകളിലും ഇൻഡക്സിന്റെ ഓർഡർ വർദ്ധിപ്പിക്കാൻ പോകുന്നു എനിക്ക് ഇവയെ ഒന്നിച്ച് ഗ്രൂപ്പുചെയ്യാൻ കഴിയും ഇതാണ് ഏറ്റവും ദൈർഘ്യമേറിയ സബ് സീക്വൻസ് തത്വത്തിൽ നമുക്ക് ഏറ്റവും ദൈർഘ്യമേറിയ കോമൺ സബ്വേഡ് നോക്കാനും ഈ സമർഥമായ കണക്ഷനുകൾക്കായി നോക്കാനും കഴിയും എന്നാൽ ഇത് ഇൻഡക്ടീവ്വ് ആയി ചെയ്താൽ നേരിട്ട് ഉത്തരം കണ്ടെത്താം സബ് സീക്വൻസ് മാച്ചിങ്ങിന്റെ ഒരു വലിയ പ്രചോദനം ജനിതകശാസ്ത്രം പോലുള്ളവയിൽ നിന്നാണ് ഉദാഹരണത്തിന് രണ്ട് ജീവികളുടെ ജീൻ ശ്രേണിയെ താരതമ്യം ചെയ്യുമ്പോൾ അവ അപൂർവ്വമായി മാത്രം തുല്യമാണ് നമ്മൾ തിരയുന്നത് വലിയ പൊരുത്തങ്ങളാണ് അവിടെ നിങ്ങൾ നിരസിക്കാൻ ആഗ്രഹിക്കുന്ന ചില ജങ്ക് ജീനുകൾ ഉണ്ടായിരിക്കാം മുഴുവൻ ജീനോമിലും വലിയ ഓവർലാപ്പുകൾ ഉണ്ടെങ്കിൽ രണ്ട് ജീൻ സീക്വൻസുകളോ രണ്ട് ജീവികളോ സമാനമാണെന്ന് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അവിടെ വ്യക്തിഗത സെഗ്മെന്റ് തിരയുകയല്ല മറിച്ച് ഇരുവശങ്ങളിലുമുള്ള ഏറ്റവും നിസാരമായ കാര്യങ്ങൾ കളയുന്നു നമുക്ക് അത് അലൈൻ ചെയ്യാൻ കഴിയും മറ്റൊരു പ്രധാന ഉദാഹരണം ടെക്സ്റ്റ് ഫയലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡിഫ് എന്ന് വിളിക്കപ്പെടുന്ന യുണിക്സ് കമാൻഡ് ആണ് ഇത് വാസ്തവത്തിൽ രണ്ട് ഫയലുകളെ ലൈൻ ബൈ ലൈൻ ആയി നോക്കി ഒരു പദമായി രേഖപ്പെടുത്തുന്നു ഓരോ ഫയലിന്റെ ഓരോ വരിയും മറ്റ് ഫയലിലെ വരിയുമായി താരതമ്യപ്പെടുത്തുന്നു അവ പൊരുത്തപ്പെടുന്നുവെങ്കിൽ അത് തുല്യമാണെന്ന് കരുതുന്നു കൂടാതെ ഫയലിന്റെ ഒരു പതിപ്പിനെ ഫയലിന്റെ മറ്റ് പതിപ്പുകളുമായി താരതമ്യപ്പെടുത്തുന്നതിനുള്ള നല്ല മാർഗ്ഗമാണിത് നിങ്ങൾ മറ്റൊരാളുമായി ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ പ്രോഗ്രാമിലോ സഹകരിക്കുന്നുവെന്നും നിങ്ങളും അവരും അത് ഇമെയിൽ വഴി അയയ്ക്കുകയും ചെയ്യുന്നുവെന്ന് കരുതുക അവർ ചില മാറ്റങ്ങൾ വരുത്തി ഇപ്പോൾ diff വേഗത്തിൽ നിങ്ങളോട് പറയും നിങ്ങൾ അയച്ച ഫയലും നിങ്ങൾക് തിരികെ ലഭിക്കുന്ന ഫയലും തമ്മിലുള്ള വ്യത്യാസമെന്താണ് diff പ്രധാനമായും ഇതേ കാര്യം ചെയ്യുന്നു നിങ്ങൾ ചെയ്യുന്ന ഫയലും തിരികെ ലഭിക്കുന്ന ഫയലും തമ്മിലുള്ള ഏറ്റവും ദൈർഘ്യമേറിയ പൊരുത്തം കണ്ടെത്താൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് തിരികെ ലഭിച്ച ഫയലും അതിലെ കുറച്ച് വരികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഏറ്റവും ചെറിയ മാർഗ്ഗവും ഇതാണ് ഏറ്റവും ദൈർഘ്യമേറിയ കോമൺ സബ് സീക്വൻസിന്റെ ചില ഉദാഹരണങ്ങളാണ് ഇവ സാധാരണയായി ഏറ്റവും ദൈർഘ്യമേറിയ കോമൺ സബ്വേഡ് പ്രശ്നതേക്കാൾ ഇത് പ്രായോഗികമായി കൂടുതൽ ഉപയോഗപ്രദമാണ് ഏറ്റവും ലോങ്ങ്സ്റ്റ് സബ് സീക്വൻസ് പ്രോബ്ലെത്തിന്റെ ഇൻഡക്റ്റീവ് സ്ട്രക്ച്ചർ എന്താണ് നമ്മൾ മുമ്പ് വാക്കുകൾ ഉപയോഗിച്ചതുപോലെ ഇവിടെയും ഉണ്ട് a 0 മുതൽa m വരെ അല്ലെങ്കിൽ a മൈനസ് 1 a n മൈനസ് 1 എന്ന് പറയാൻ കഴിയും നിങ്ങൾ അത് എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നത് പ്രശ്നമല്ല പക്ഷേ ചിത്രത്തിൽ ഇത് a n ആണ് എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അവസാനത്തെ നീക്കം ചെയ്യാം a 0 മുതൽ a n മൈനസ് 1 വരെയുള്ളതാണ് ആദ്യത്തെ വാക്ക് b 0 മുതൽ bn മൈനസ് 1 വരെയുള്ളത് രണ്ടാമത്തെ പദമാണ് ഇപ്പോൾ രണ്ട് കേസുകളുണ്ട് ആദ്യ കേസ് എളുപ്പമുള്ള കേസാണ് എനിക്ക് ഈ രണ്ട് കാര്യങ്ങളും തുല്യമാണെന്ന് കരുതുക അതിനുശേഷം എ 1 ബി 1 എന്നിവയ്ക്കുള്ള പ്രശ്നം ഇൻഡക്റ്റീവ് ആയി പരിഹരിക്കാനും ഇത് ചേർക്കാനും കഴിയും എനിക്ക് ആ പരിഹാരം വിപുലീകരിക്കാൻ കഴിയും എ 0 മാച്ചസ് b 0 ആണെന്നും പിന്നീട് അതുപോലെ തുടരാം എന്താണ് സബ് സീക്വൻസ് സബ് സീക്വൻസ് യഥാർത്ഥത്തിൽ ഒരു മാച്ചിങ് ആണ് ഇത് ഇതുമായി പൊരുത്തപ്പെടുന്നു എന്ന് പറയും തുടർന്ന് ഇത് ഇതുമായി പൊരുത്തപ്പെടുന്നു ഇത് രണ്ടും ഒന്നാണ് എന്നിങ്ങനെ പറയുന്നു ഒരേയൊരു കാര്യം ഈ വരികൾ ഓവർലാപ്പ് ചെയ്യില്ല അവ ഓവർലാപ്പ് ഇല്ലാതെ ഇടത്തു നിന്ന് വലത്തോട്ട് പോകണം ഇത്തരത്തിലുള്ള തുല്യ അക്ഷരങ്ങൾ വേർതിരിക്കുന്നത് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം വീണ്ടും ഏറ്റവും ദൈർഘ്യമേറിയ സബ് സീക്വൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ ആദ്യത്തെ രണ്ട് കാര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുമെങ്കിൽ ഞാൻ അവയുമായി മാച്ച് ചെയ്യണം തുടർന്ന് എനിക്ക് മുന്നോട്ട് പോകാനും ബാക്കിയുള്ളവ ഇഷ്ടാനുസരണം പൊരുത്തപ്പെടുത്താനും കഴിയും കാരണം വളരെ ലളിതമാണ് ഇപ്പോൾ മികച്ച പരിഹാരം പൊരുത്തപ്പെടുന്നില്ലെന്ന് കരുതുക മികച്ച പരിഹാരത്തിന് യഥാർത്ഥത്തിൽ എ 0 ബി 1 മായി പൊരുത്തപ്പെടേണ്ടതുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുവെന്ന് കരുതുക ശരി എനിക്ക് എ 0 ബി 1 എന്നിവയുമായി പൊരുത്തപ്പെടാൻ കഴിയുമെങ്കിൽ എനിക്ക് അത് പഴയപടിയാക്കാനും എ 0 ബി 0 എന്നിവ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കാം കാരണം എ 0 ബി 1 അവ പൊരുത്തപ്പെടുന്നെങ്കിൽ ബി 1 മാച്ച് ചെയ്യും എനിക്ക് ആ പരിഹാരം എടുത്ത് എ 0 യെ ബി 0 മായി പൊരുത്തപ്പെടുന്ന ഒരു പരിഹാരത്തിലേക്ക് മാറ്റാൻ കഴിയും ആദ്യ രണ്ട് അക്ഷരങ്ങൾ ഒന്നുതന്നെയാകാം ഒപ്പം അത് എടുക്കാം ഒപ്പം ഇത് വൺ പ്ലസ് റിസൾട്ട് ഓഫ് ഒപ്ടിമൽ സൊല്യൂഷൻ ആയിരിക്കും അവ സമാനമല്ലെങ്കിൽ ഇത് രസകരമായ ഒരു കേസാണ് ഇവ സമാനമല്ലെന്ന് കരുതുക എന്താണ് സംഭവിക്കുക അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി എ 0 ബി 0 എന്നിവ അവഗണിക്കാം എ 0 യഥാർത്ഥത്തിൽ ബി 1 മായി പൊരുത്തപ്പെടാം അല്ലെങ്കിൽ ബി 0 എ 1 മായി പൊരുത്തപ്പെടാം നമുക്കറിയില്ല പക്ഷേ എ 0 ബി 0 യുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് നമുക്കറിയാം അവയിലൊന്ന് ഉപേക്ഷിക്കണം കാരണം എ 0 ബി 0 യുമായി പൊരുത്തപ്പെടുന്ന ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ ഏതാണ് എന്ന് നമുക്ക് അറിയില്ല നമ്മൾ ചെയ്യുന്നത് രണ്ട് സബ് പ്രോബ്ലെംസ് എടുക്കുക എന്നതാണ് b 0 സൊല്യൂഷന്റെ ഭാഗമല്ലെന്ന് കരുതുക മികച്ച പരിഹാരം a0 മുതൽ എ m മൈനസ് 1 നും b 1 മുതൽ bn വരെയും വരുന്നു b 0 ഒഴിവാക്കപ്പെടുന്നു കാരണം എനിക്ക് ഇത് എ 0 മായി പൊരുത്തപ്പെടുത്താൻ കഴിയില്ല എ 0 മാച്ച് ചെയ്യുന്നത് എല്ലാം വലതുവശത്ത് പൊരുത്തപ്പെടണം ഞാൻ അതുമായി മുന്നോട്ട് പോകണം പക്ഷേ ഇത് തെറ്റായ തിരഞ്ഞെടുപ്പായിരിക്കാം മറ്റൊരു ചോയിസ് ബി 0 സൂക്ഷിച്ച് എ 0 ഡ്രോപ്പ് ചെയ്യണം ആ സാഹചര്യത്തിൽ ഞാൻ എ 1 മുതൽ a m മൈനസ് 1 ബി 0 മുതൽ bm വരെ ചെയ്യണം ഇവ രണ്ടും തിരഞ്ഞെടുക്കേണ്ട രണ്ട് വ്യത്യസ്ത ചോയിസുകളാണ് കാരണം അവ രണ്ടും നമുക്ക് അറിയില്ല അതുകൊണ്ട് രണ്ടും ചെയ്യുന്നു ഇഫ് ai a 0 ഈസ് നോട്ട് b 0 എങ്കിൽ ഈ രണ്ട് പ്രശ്നങ്ങൾ നമ്മൾ a1 മുതൽ എ m മൈനസ് 1 b 0 a 0 മുതൽ a0 മുതൽ എ m മൈനസ് 1 b 1 വരെയും സോൾവ് ചെയ്ത് മാക്സിമം ഏതാണോ നല്ലത് അത് എടുക്കുന്നു ഇത് പൊതുവെ ആഴത്തിൽ നോക്കാൻ സഹായിക്കും എ 0 ബി 0 സോൾവ് ചെയ്തു എ 1 ബി 0 അല്ലെങ്കിൽ എ ബി എ 0 ബി 1 എന്നിവയ്ക്ക് സൊല്യൂഷൻ ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു പൊതുവേ നമുക്ക് ai bj എന്നിവ ഉണ്ട് വീണ്ടും നമുക്ക് ai bj എന്നിവ ഉള്ളതിനാൽ ai bj ക്ക് തുല്യമാണെങ്കിൽ നിങ്ങൾ അതേ യുക്തി ഉപയോഗിക്കും അത് വൺ പ്ലസ് ബാക്കി ഇത്രയും ഇത് നല്ല കാര്യമാണ് ai bj ക്ക് തുല്യമല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരേ കാര്യം നോക്കുകയാണ് നമ്മൾ ഡ്രോപ്പ് bj ചെയ്ത് പരിഹരിക്കുന്നു ഒപ്പം നമ്മൾ ai ഡ്രോപ്പ് ചെയ്ത് പരിഹരിക്കുകയും രണ്ടിലും മികച്ചത് നൽകുകയും ചെയ്യുന്നു I ൽ നിന്നുള്ള പരിഹാരവും j പ്ലസ് 1 ൽ നിന്നുള്ള പരിഹാരവും നമ്മൾ എടുത്തു ആ സൊല്യൂഷന്റെ മാക്സ് എടുക്കുന്നു അതിനുമുമ്പുള്ളത് പോലെ നമ്മൾ പറഞ്ഞാൽ lcs ഓഫ് ij എന്നത് i j എന്നിവയിൽ ആരംഭിക്കുന്ന ഏറ്റവും ലോങ്ങ്സ്റ്റ് കോമൺ ആണ് ഇഫ് ai ഈക്വൽ റ്റു bj ആണെങ്കിൽ അത് ഐ പ്ലസ് വൺ ജെ പ്ലസ് പ്ലസ് വൺ ആയിരിക്കും ഇത് തുല്യമല്ലെങ്കിൽ ഇൻക്രിമെൻറ് ഐ അല്ലെങ്കിൽ ഇൻക്രിമെൻറ് ജെ ആയിട്ടുള്ള സബ് പ്രോബ്ലെത്തിന്റെ മാക്സിമം ആയിരിക്കും അത് ലോങ്ങ്സ്റ്റ് കോമൺ സബ്വേഡ് mn എന്നീ അവസാന സ്ഥാനത്തേക്ക് പോകുമ്പോൾ നമുക്ക് 0 ലഭിക്കുന്നു ഇവിടെ ഡിപെൻഡൻസി കേസിനെ ആശ്രയിച്ച് കുറച്ചുകൂടി സങ്കീർണ്ണമാണ് കാരണം ഒന്നുകിൽ ഐ പ്ലസ് 1 ജെ പ്ലസ് 1 നോക്കണം അല്ലെങ്കിൽ ഐ പ്ലസ് 1 j അല്ലെങ്കിൽ ij പ്ലസ് 1നോക്കണം ഈ സ്ക്വയറിനായി എനിക്ക് ഇത് ഉണ്ടായിരുന്നു ഞാൻ അതിന്റെ വലത് അയൽക്കാരനെയും വലത് ഡയഗണൽ അയൽക്കാരനെയും താഴത്തെ അയൽക്കാരനെയും നോക്കിയിരുന്നു എന്നാൽ വീണ്ടും ഡിപെൻഡൻസി ഇല്ലാത്തവ ദൃശ്യമാകുന്നു മുമ്പത്തെ പോലെ ഏറ്റവും ദൈർഘ്യമേറിയ സബ്വേഡിനായി നമുക്ക് ഈ ഡിപെൻഡൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനർത്ഥം ഇതുപോലുള്ള ഒരു ചതുരത്തിന് പോലും ഡിപൻഡൻസികളില്ല കാരണം അതിന്റെ താഴെ ഒന്നുമില്ല എന്നാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ചിത്രം നോക്കിയാൽ നമ്മൾ താഴെ വലത്തോട്ടും ഇടത്തോട്ടും നോക്കുന്നതിനാൽ ഞാൻ ഇത് നോക്കുകയാണെങ്കിൽ അതിന്റെ ഡിപെൻഡൻസി മൂന്ന് ദിശകളിലാണ് രണ്ട് ദിശകൾ ശൂന്യമാണ് പക്ഷേ ഈ ദിശയിൽ ഡിപെൻഡൻസി ഉണ്ട് അങ്ങനെ നേരിട്ട് ഈ സ്ക്വയർ പൂരിപ്പിക്കാൻ കഴിയില്ല എനിക്ക് നേരിട്ട് പൂരിപ്പിക്കാൻ കഴിയുന്ന ഒരേയൊരു സ്ക്വയർ ഇതാണ് കാരണം അതിനു ഡയഗണലായോ വലതു വശത്തോ താഴെയോ ഒന്നും ഇല്ല ഞാൻ അവിടെ നിന്ന് ആരംഭിച്ച് ഞാൻ എ0 ഇട്ടു മുമ്പുള്ളതുപോലെ ഇത് താഴേക്കിറങ്ങാം കാരണം ഇപ്പോൾ ഇത് ലഭിച്ചുകഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇടതുവശത്തായിരിക്കും ഒരിക്കൽ ഇത് ലഭിക്കുകയും ആ വാക്കിന് അപ്പുറം m എത്തിയാൽ ഈ ഡമ്മി സ്ഥാനം എത്തിയാൽ റോകോളം എന്നിവ 0 ആകും എന്നാൽ പ്രധാനമായ കാര്യം ഓർക്കുക റോകോളം എന്നിവ 0 ആകുന്നത് അവർക്കു ഡിപെൻഡൻസി ഇല്ലാത്തതു കൊണ്ടല്ല നമുക്ക് വ്യവസ്ഥാപിതമായി ഗ്രിഡ് പാത്ത് പൂരിപ്പിച്ചത് പോലെ ഇത് ചെയ്യാം നമുക്ക് താഴത്തെ വരിയും ഏറ്റവും ഇടത് ഭാഗത്തെ നിരയും പൂരിപ്പിക്കാൻ കഴിയും ഇവിടെ ഏറ്റവും വലത് ഭാഗത്തെ നിര ഇപ്പോൾ ഇത് ലഭിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം ശരിയായി പൂരിപ്പിക്കാം പിന്നീട് നമുക്ക് ഇത് പൂരിപ്പിക്കാൻ രണ്ട് മൂന്ന് എൻട്രികൾ നൽകാം നമുക്ക് ഇത് പൂരിപ്പിക്കാൻ മൂന്ന് എൻട്രികളുണ്ട് നമുക്ക് ഇത് പൂരിപ്പിക്കാൻ മൂന്ന് എൻട്രികളുണ്ട് കൂടാതെ ഈ നിര പൂരിപ്പിക്കാനും നമുക്ക് ഈ നിര ചെയ്യാനും കഴിയും കൂടാതെ ഈ നിര നമുക്ക് നിര പ്രകാരം ചെയ്യാം നമ്മൾ അത് പ്രചരിപ്പിക്കുകയും ഒടുവിൽ ഇവിടുത്തെ മൂല്യം ലോങ്ങ്സ്റ്റ് കോമൺ സബ് സീക്വൻസ് ന്റെ ഏറ്റവും ദൈർഘ്യമേറിയ നീളം ആയിരിക്കും ഇത് വരി വരിയായും ചെയ്യാനാകും ഇപ്പോൾ സൊല്യൂഷൻ വളരുമ്പോൾ അല്ലെങ്കിൽ നമ്പർ വർദ്ധിപ്പിക്കുമ്പോഴെല്ലാം യഥാർത്ഥ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം ഇത് 4 എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചോദിക്കാം ഇത് 4 ആണെന്ന് നമ്മൾ പറയുന്നു കാരണം നമ്മൾ പ്ലസ് 3 ചെയ്തതിനാലല്ല കാരണം sb ക്ക് തുല്യമല്ലാത്തതിനാൽ അല്ല നമ്മൾ 4 ചെയ്തു കാരണം നമുക്ക് ഇവിടെ നിന്ന് പരമാവധി മൂല്യം ലഭിച്ചു എന്തുകൊണ്ടാണ് വീണ്ടും 4 i s ന് തുല്യമല്ല നമുക്ക് ഇവിടെ നിന്ന് പരമാവധി മൂല്യം ലഭിച്ചു എന്തുകൊണ്ടാണ് ഇത് 4 s എന്നത് x ന് തുല്യമാണ് നമുക്ക് ഇത് 3 പ്ലസ് 1 ആയതു കൊണ്ട് ലഭിച്ചിരിക്കണം എന്തുകൊണ്ടാണ് ഇ പ്ലസ് ഇ കാരണം നമുക്ക് ഇത് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കണം ഓരോ ഭാഗങ്ങളിലും മൂല്യം സൃഷ്ടിക്കുന്നതിനായി ഇൻഡക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ നടത്തിയ ചോയിസുകൾ അനുസരിച്ച് നമ്മൾ പാത പിന്തുടരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ij എന്ന ഓരോ സെല്ലിനും നമ്മൾ ഇത് എഴുതിയത് എന്തുകൊണ്ടാണ് എന്ന് ഓർമിക്കുന്നു കാരണം ഇത് വൺ പ്ലസ് ഡയഗണൽ അയൽക്കാരൻ ആയതിനാൽ ആണോ വലതുഭാഗത്ത് വരുന്നതിൽ ഇടതുഭാഗത്തിന്റെ പരമാവധി ആണോ ഈ സാഹചര്യത്തിൽ ഇടത്തോട്ടോ താഴെയോ ആണോ പരമാവധി എന്നിങ്ങനെ നമ്മൾ രേഖപ്പെടുത്തുന്നു ഇപ്പോൾ ഈ ചിത്രത്തിൽ ഓരോ തവണയും ഒരു ഡയഗണൽ ഘട്ടം എടുക്കുമ്പോൾ അത് അർത്ഥമാക്കുന്നത് അവിടെ മാച്ച് ഉണ്ടായിരുന്നു എന്നാണ് ഇതാണ് ആദ്യത്തെ മാച്ച് ഇവിടെ s മാച്ച് s ഈ മാച്ച് e ഈക്വൽ റ്റു e ഇത് c ഈക്വൽ റ്റു c ഇപ്പോൾ ഈ പോയിന്റിനുശേഷം ഇത് ഫ്ലാറ്റ് ആണ് പിന്നീട് ഈ ഘട്ടത്തിൽ നമുക്ക് വീണ്ടും ഒരു പൊരുത്തമുണ്ട് ഇപ്പോൾ നമുക്ക് s e c t എന്നിവ ലഭിക്കും അതുകൊണ്ട് ഈ ഡയഗണൽ സ്റ്റെപ്സ് വായിക്കാം നമുക്ക് ലോങ്ങ്സ്റ്റ് നമ്പർ വലിയ നമ്പർ എന്നിവ കിട്ടി ഓരോ ഡയഗണൽ സ്റ്റെപ്സ് നമ്മുടെ അവസാന ഉത്തരത്തിലേക്ക് നമ്മളെ നയിക്കുന്നു ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാകാം അവിടെ നമുക്ക് ഏതെങ്കിലും ഉദാഹരണം ലഭിച്ചു കാരണം ചിലപ്പോൾ ഞാൻ പരമാവധി എടുക്കുകയാണെങ്കിൽ പരമാവധി രണ്ട് ദിശകളിലൊന്നായിരിക്കാം ഇടത് വലത് അയൽക്കാരന്റെയും അടിഭാഗത്തിന്റെയും മാക്സ് എടുത്താൽ ചിലപ്പോൾ അവ തുല്യമായിരിക്കാം ഈ സാഹചര്യം എനിക്കുണ്ടാകാം ഞാൻ ഇവിടെ വന്നു എന്ന് കരുതുക അപ്പോൾ എനിക്ക് ഇത് ഇവിടെ നിന്നാണോ അതോ ഇവിടെ നിന്നാണോ ലഭിച്ചതെന്ന് എനിക്കറിയില്ല എനിക്ക് രണ്ട് വ്യത്യസ്ത വിപുലീകരണങ്ങൾ ഉണ്ടായിരിക്കാം അത് എന്നെ ഒരു പരിഹാരത്തിലേക്ക് നയിക്കും ലോങ്ങ്സ്റ്റ് കോമൺ സബ് സീക്വൻസ് യൂണീക്ക് ആകണമെന്നില്ല എന്നാൽ ഏതെങ്കിലും ഒരു പാത പിന്തുടർന്ന് നിങ്ങൾക്ക് കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും വീണ്ടെടുക്കാൻ കഴിയും ഇവിടെ ഈ പൈത്തൺ കോഡ് മുമ്പത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമല്ല അവസാന നിരയും അവസാന വരിയിലെ താഴത്തെ നിരയും നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു തുടർന്ന് നിങ്ങൾ വരിവരിയായി നിരനിരയായി സമവാക്യം ഉപയോഗിച്ച് പൂരിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ മാക്സിമം വാല്യൂവിന്റെ ട്രാക്ക് സൂക്ഷിക്കേണ്ടതില്ല മാക്സിമം വാല്യൂ 0 0 മൂല്യത്തിലേക്ക് സ്വാഭാവികമായി വരുന്നതിനാൽ അപ്ഡേറ്റ് ചെയ്യുന്നത് തുടരുക ലോങ്ങ്സ്റ്റ് കോമൺ സബ് സബ്വേഡ് പോലെ ഇവിടെ നമ്മൾ വീണ്ടും m ടൈംസ് n വലുപ്പമുള്ള ടേബിൾ പൂരിപ്പിക്കുന്നു ഓരോ എൻട്രിയും ചെയ്യുമ്പോൾ നിങ്ങൾ പരമാവധി മൂന്ന് എൻട്രികൾ മാത്രം നോക്കിയാൽ മതി ചുവടെ വലതുവശത്ത് ഉള്ള ഒന്ന് താഴെ വലത് വശത്തുള്ളത് ഒന്ന് താഴെ ഇത് സ്ഥിരമായി ചെയ്യേണ്ട കാര്യമാണ് അതിനാൽmn എൻട്രീസ് ആണെങ്കിൽ വർക് പെർ എൻട്രി ഒരേപോലെ ആയിരിക്കും അത് m ടൈംസ് n സമയമെടുക്കും